സ്വതന്ത്ര KVL സമവാക്യങ്ങളുടെ എണ്ണവും ശാഖകളുടെ ബന്ധവും നമ്മൾ KCL സമവാക്യങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ N നോഡുകളും B ശാഖകളും ഉള്ള ഒരു സർക്യൂട്ടിന്റെ KVL സമവാക്യങ്ങൾ നമ്മൾ എഴുതുന്നത് എങ്ങനെ എന്ന് കണ്ടുപിടിക്കണം കിർച്ചോഫ് കറണ്ട് ലോ സമവാക്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇത് കുറച്ചു കൂടെ സങ്കീർണ്ണമാണ് എന്നിരുന്നാലും നമുക്ക് ഇതും ചെയ്യുവാൻ സാധിക്കും ഞാൻ ആ സർക്യൂട്ട് തന്നെ വിചിന്തനം ചെയ്യുകയാണ് 1 2 3 4 നോഡുകളും 1 2 3 4 5 6 7 8 ശാഖകളും ഉള്ളവ ഇനി ഇപ്പോൾ നമ്മൾ എങ്ങനെ KVL സമവാക്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കും ആദ്യം തന്നെ ലൂപിന്റെ ചുറ്റും നമ്മൾ KVL സമവാക്യങ്ങൾ എഴുത്തും അതിനാൽ എല്ലാ ലൂപ്പിലും ഒരു KVL സമവാക്യം ഉണ്ട് കൂടാതെ സ്വതന്ത്ര ലൂപ്പുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്വതന്ത്ര ലൂപ്പുകൾ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഈ 1 2 ശാഖകൾ ഒരു ലൂപ്പ് ഉണ്ടാക്കും 1 6 3 ശാഖകൾ ഒരു ലൂപ്പ് ഉണ്ടാക്കും കൂടാതെ 2 6 3 ശാഖകൾ ഒരു ലൂപ്പ് ഉണ്ടാക്കും മൂന്ന് ലൂപ്പ് ഉണ്ട് പക്ഷെ ഒരു സ്വതന്ത്ര ലൂപ്പ് മാത്രമേ ഉള്ളു അതിനാൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ലൂപ്പ് എടുക്കാം അല്ലെങ്കിൽ ആ ലൂപ്പ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇതിൽ രണ്ടെണ്ണം മാത്രമേ സ്വതന്ത്രമായിട്ടുള്ളു അപ്പോൾ നമ്മൾ എങ്ങനെ സ്വതന്ത്ര ലൂപ്പുകൾ ഉണ്ടാക്കും ഓരോതവണയും സർക്യൂട്ട് വീണ്ടും വരയ്ക്കാതെ ഇത് സമർത്ഥമായി ചർച്ച ചെയ്യുവാൻ ഒരു സർക്യൂട്ടിലെ ഗ്രാഫ് ആശയം എങ്ങനെ എന്ന് ഞാൻ പരിചയപ്പെടുത്താം ഒരു സർക്യൂട്ടിലെ ഗ്രാഫ് അടിസ്ഥാനപരമായി അതെ ടോപ്പോളജി അതെ നോഡു അതെ ശാഖ പക്ഷെ ഇവിടെ എന്താണ് ശാഖയിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്നവയെ കുറിച്ചു ആലോചിച്ചു വിഷമിക്കുന്നില്ല അതിനാൽ ഇവ സർക്യൂട്ടിന്റെ പൊതുവായ പ്രോപ്പർട്ടികൾ ചർച്ച ചെയ്യുവാൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്നാലോചിച്ചു വിഷമിക്കുന്നില്ല ഇവയെല്ലാം നമ്മൾ വെറുതെ ഒരു വര വെച്ച് രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇതിന്റെ ഗ്രാഫ് ഇതിന്റെ നോഡുകളുടെ എണ്ണം തന്നെ ആയിരിക്കും നമുക്ക് 4 നോഡുകളും 8 ശാഖകളും ഉണ്ട് ഗ്രാഫുകൾ നെറ്റ്വർക്കിന്റെ പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടി അനലൈസ് ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ പുറകിൽ കുറെയേറെ പ്രമാണങ്ങൾ ഉണ്ട് പക്ഷെ നമുക്കിത് ലളിതമായ സർക്യൂട്ടിന്റെ ചിത്രീകരണം ആണ് അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുവാൻ പോകുന്നത് കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫിലുള്ള സ്വതന്ത്ര ലൂപ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നാണ് ഇത് ചെയ്യുന്നതിനായി ഞാൻ ഈ ഗ്രാഫ് ഇവിടെ വീണ്ടും വരച്ചുകൊള്ളട്ടെ അപ്പോൾ സ്വതന്ത്ര ലൂപ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ആദ്യം ചെയ്യുക ഇവിടെ ട്രീ എന്ന് അറിയപ്പെടുന്നത് കണ്ടുപിടിക്കുക എന്നതാണ് ഇനി ആ ട്രീ എന്താണ് ട്രീ എന്ന് വെച്ചാൽ ശാഖകളുടെ ഒരു കൂട്ടം ആണ് അതായത് അടിസ്ഥാനമായി കുറെ ശാഖകളുടെ ഉപഗണം സർക്യൂട്ടിന്റെ B ശാഖയുടെ ഉപഗണം എല്ലാ നോഡുകളുടെയും കുറുകെ അപ്പോൾ എല്ലാ നോഡിലേക്കും ഒരു ശാഖ എങ്കിലും ഘടിപ്പിച്ചിരിക്കണം പക്ഷെ ഒരു ലൂപ്പ് ഉണ്ടാക്കാതെ അപ്പോൾ ഇത് സ്പഷ്ടമാണ് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചാൽ അതിൽ കുറെ ട്രീകളും വേറെ കുറെയേറെ സാധ്യതകളും ഉണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് ഏതിൽനിന്ന് വേണമെങ്കിലും തുടങ്ങാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ട്രീയുടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് 4 നോഡുകൾ ഞാൻ 1 6 7 ശാഖകൾ എടുക്കുന്നു അപ്പോൾ 1 6 7 അപ്പോൾ സ്പഷ്ടമാണ് ഒരു ശാഖ എങ്കിലും ഉണ്ട് എല്ലാ നാല് നോഡുകളും കൂടാതെ ഇതുവരെ ഒരു ലൂപും രൂപീകരിച്ചിട്ടില്ല തീർച്ചയായും ഇത് മാത്രമല്ല വേറെ ട്രീകളും ഉണ്ടാകാം നിങ്ങൾക്ക് ഈ ഗ്രാഫ് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ രൂപപ്പെടുത്താം ഞാൻ വേറെയൊരു ഉദാഹരണവും കൂടി കാണിച്ചു തരാം വീണ്ടും എനിക്ക് ഈ ശാഖ എടുക്കാം ഈ മൂന്ന് ശാഖകളും കൂടാതെ 6 7 3 ശാഖകൾ വീണ്ടും നമുക്ക് ഒരു ട്രീ ഉണ്ട് എല്ലാ നോഡുകളും ഏതെങ്കിലും ഒരു ശാഖയിലേക്കെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ലൂപ്പ് ഒന്നും ഇല്ല അപ്പോൾ ഇതും ട്രീ ആണ് ഇനി ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ഈ രണ്ടു ട്രീകൾക്കും മൂന്ന് ശാഖകൾ ഉണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര ട്രീകൾ വേണമെങ്കിലും സർക്യൂട്ടിൽ നിന്ന് ഉണ്ടാക്കാം നിങ്ങൾക്ക് എല്ലാം മൂന്ന് ശാഖകൾ ആയിട്ട് കിട്ടും ഇതൊരു യാദൃച്ഛികം ആണോ തീർച്ചയായും അല്ല നമുക്ക് n നോഡ് ഉണ്ട് നിങ്ങൾ ഒരു നോഡിൽ നിന്ന് തുടങ്ങി മറ്റൊരു നോഡിലേക്ക് പോയി നിങ്ങൾ ഏത് ക്രമത്തിൽ വേണമെങ്കിലും നോഡുകൾ എടുത്തോളൂ എനിക്ക് ഈ കേസിൽ 1 2 3 4 ആണ് പക്ഷെ നിങ്ങൾക്ക് 1 2 3 4 ഇങ്ങനെ വേണമെങ്കിലും എടുക്കാമായിരുന്നു നിങ്ങൾ ഏത് ക്രമത്തിൽ വേണമെങ്കിലും നോഡുകൾ എടുത്തോളൂ ശാഖകൾ ഘടിപ്പിച്ചോളു നോഡ് ഒന്നിൽ നിന്ന് നോഡ് രണ്ടിലേക്ക് നോഡ് രണ്ടിൽ നിന്ന് നോഡ് മൂന്നിലേക്ക് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ സ്പഷ്ടമാണ് നോഡ് ഒന്നിൽ നിന്ന് നോഡ് N ലേക്ക് ഓരോരോ ശാഖകളും ഘടിപ്പിച്ചു ഘടിപ്പിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് N മൈനസ് 1 ശാഖകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് N നോഡുകൾ ഉണ്ടെങ്കിൽ സർക്യൂട്ടിലെ ട്രീ യിൽ N മൈനസ് 1 ശാഖകൾ ഉണ്ടാകും അതിനാൽ N മൈനസ് 1 ശാഖകൾ ഒരു N നോഡിൽ ഉണ്ടാകും അപ്പോൾ ഓർക്കുക നമ്മൾ B ശാഖകൾ ഉള്ള സർക്യൂട്ടിൽ നിന്നാണ് തുടങ്ങിയത് അതിൽ നിന്ന് N മൈനസ് 1 ശാഖകൾ നമ്മൾ എടുത്തിട്ട് ഒരു ട്രീ രൂപപ്പെടുത്തും അപ്പോൾ ഇനി എന്താണ് എന്താണ് ഇനി വരുന്നതെന്ന് വ്യക്തമാണ് എനിക്ക് ഒരു ട്രീ ഉണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ട് എനിക്ക് എല്ലാ നോഡിലേക്കും ഘടിപ്പിച്ചിട്ടുള്ള ശാഖകൾ ഉണ്ട് ഇനി എനിക്ക് കൂടുതൽ ശാഖകൾ ഉണ്ടെങ്കിൽ അതായത് ഇവിടെ ഉദാഹരണത്തിന് 1 6 7 ശാഖകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇനി എന്തൊക്കെ ബാക്കിയുണ്ടാകും അത് ഞാൻ ഇടമുറിഞ്ഞ വര വെച്ച് കാണിച്ചു തരാം ബാക്കിയായിട്ട് ഉള്ളത് 2 3 4 5 8 ഇവിടെ വ്യക്തമാണ് ബാക്കിയായിട്ട് ഉള്ള ഏതൊരു ശാഖയും ലൂപ്പ് രൂപീകരിക്കും എന്ന് അതിനാൽ ഞാൻ ശാഖ 2 കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായേനെ ഞാൻ ശാഖ 8 കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായേനെ 6 7 8 ശാഖകൾ കൊണ്ട് അപ്പോൾ ഒരിക്കൽ നിങ്ങൾക്ക് ട്രീ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ശാഖയും അതിലേക്ക് കൂട്ടിച്ചേർത്തു കൊള്ളട്ടെ അവിടെ ഒരു ലൂപ്പ് രൂപീകരിക്കും അപ്പോൾ ഇവിടെ വളരെ എളുപ്പം ആണ് ലൂപ്പിന്റെ എണ്ണം എടുക്കുവാൻ നമുക്ക് N നോഡുകളും B ശാഖകളും ഉള്ള സർക്യൂട്ട് ഉണ്ട് N നോഡുകൾ ഉള്ള സർക്യൂട്ടിൽ N മൈനസ് 1 ശാഖകൾ ഉള്ള ട്രീ ഉണ്ടാകും ഇനി നമുക്ക് ഉള്ള B ശാഖകളിൽ N മൈനസ് 1 എടുത്താൽ നമുക്ക് B മൈനസ് N പ്ലസ് 1 ശാഖകൾ ബാക്കിയുണ്ടാകും ഇതിനെ കോ ട്രീ എന്നും വിളിക്കും ഇനി ഈ ഓരോ B മൈനസ് N പ്ലസ് 1 ശാഖകൾ ട്രീയിലേക്ക് അവതരിപ്പിച്ചാൽ പുതിയ ലൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ട്രീ രൂപീകരിക്കുക ഇനി ഈ ഓരോ ശാഖകളും ഓരോന്നോരോന്നായി എടുക്കുക എന്നിട്ട് ഇവ കൂട്ടുക അതായത് ഈ ഒരു ശാഖ എടുക്കുക ഒരു ലൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അത് മാറ്റുക വേറൊരു ശാഖ എടുക്കുക ഒരു ലൂപ്പ് ഉണ്ടാക്കുക അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിൽ നമുക്ക് തുടങ്ങാം ഈ ട്രീയിൽ നിന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം നമുക്ക് നാല് നോഡും എട്ടു ശാഖകളും ഉണ്ട് മൂന്ന് ശാഖകൾ ട്രീയിൽ ബാക്കി 5 ശാഖകൾ അപ്പോൾ നമുക്ക് 5 സ്വതന്ത്ര ലൂപ്പുകൾ അതായത് B മൈനസ് 1 സ്വതന്ത്ര ശാഖകൾ തത്ഫലമായി B മൈനസ് 1 സ്വതന്ത്ര കിർച്ചോഫ് വോൾട്ടേജ് ലോ സമവാക്യങ്ങൾ അപ്പോൾ ഇത് വിവരിക്കുവാനായി ഞാൻ ലൂപ്പുകൾ കാണിക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ലൂപ്പ് ഉണ്ടാക്കുവാൻ ശാഖ 1 കൂട്ടിച്ചേർക്കുന്നു വേറെ ഒരു ലൂപ്പ് ഉണ്ടാക്കുവാൻ ശാഖ 2 കൂട്ടിച്ചേർക്കുന്നു ശാഖ 4 വേറൊരു ലൂപ്പ് ഉണ്ടാക്കുന്നു ശാഖ 5 വേറൊരു ലൂപ്പ് ഉണ്ടാക്കുന്നു ശാഖ 8 വേറൊരു ലൂപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ 5 ലൂപ്പുകൾ ഉണ്ട് എനിക്ക് B മൈനസ് N പ്ലസ് 1 കിർച്ചോഫ് വോൾട്ടേജ് ലോ സമവാക്യങ്ങൾ ഉണ്ടാക്കാം അതിനാൽ N നോഡുകൾ ഉള്ള സർക്യൂട്ടിൽ നമുക്ക് N മൈനസ് 1 KCL സമവാക്യങ്ങൾ ഉണ്ട് N നോഡും B ശാഖകളും ഉള്ള സർക്യൂട്ടിൽ നമുക്ക് B മൈനസ് N പ്ലസ് 1 KVL സമവാക്യങ്ങൾ ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് 2B വേരിയബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ 2B സമവാക്യം കിട്ടുമെന്ന് നമുക്ക് ആദ്യം തെന്നെ ഇത് എവിടുന്നു കിട്ടും നമുക്ക് N മൈനസ് 1 KCL സമവാക്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് N നോഡ് B ശാഖ ഉള്ള സർക്യൂട്ടിനു വേണ്ടിയാണ് അപ്പോൾ N മൈനസ് 1 KCL സമവാക്യങ്ങൾ B മൈനസ് N പ്ലസ് 1 KVL സമവാക്യങ്ങൾ കൂടാതെ ഇത് രണ്ടും കൂടി നമുക്ക് B സമവാക്യങ്ങൾ തരും കൂടാതെ നമുക്ക് B ശാഖകൾ ഉണ്ട് ഓരോ ശാഖയ്യ്ക്കും കറണ്ട് വോൾട്ടേജ് ബന്ധം ഉണ്ട് അപ്പോൾ നമുക്ക് B I V ബന്ധം ഉണ്ട് അത് B സമവാക്യം കൂടി നമുക്ക് തരുന്നു അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 B സമവാക്യങ്ങൾ ഉണ്ട് ഇത് പരിഹരിക്കുന്നത് വഴി നമ്മൾ 2B വേരിയബിൾ പരിഹരിക്കുന്നു ഈ ഓരോ B ശാഖയിലും എത്രയാണ് 2B വേരിയബിൾ B കറണ്ട് B വോൾട്ടേജ് നമ്മൾ സർക്യൂട്ടിലെ എല്ലാ വേരിയബിളുകൾക്കും സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ചില സംവിധാനങ്ങൾ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുവാനായി നോക്കും ഇപ്പോഴും ക്രമമായിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് സമവാക്യങ്ങൾ എഴുതും എന്നല്ല എന്നിട്ട് എല്ലാ ചരങ്ങളും പരിഹരിക്കും എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ചില അഡ് ഹോക്ക് സംവിധാനങ്ങളും നോക്കും എന്നിട്ട് നമ്മൾ ക്രമമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് പോകും അത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ചില സങ്കീർണ്ണ സർക്യൂട്ടുകളിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കുറെ സ്രോതസ്സുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു സ്രോതസ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറെയേറെ ലളിതമായ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുവാൻ പറ്റും പക്ഷെ കുറെ സ്രോതസ്സുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്കു കുറച്ചുകൂടി ചിട്ട വേണം